03 04 യൂണിറ്റുകളിലെ അസൈൻമെന്റുകളുടെ പരിഹാരം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ അസൈൻമെന്റിലെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് അതായതു യൂണിറ്റ് 34 അപ്പോൾ ഇവിടെ I1 കറണ്ട് കണ്ടുപിടിക്കുവാനാണ് ചോദിച്ചിരിക്കുന്നത് കുറെ റെസിസ്റ്ററുകളും തന്നിട്ടുണ്ട് അടിസ്ഥാനമായി ഇവയുടെ സീരിസ് കൂട്ടുകെട്ടും പാരലൽ കൂട്ടുകെട്ടുംകണ്ടുപിടിക്കണം ഒറ്റയായ തുല്യമായ റെസിസ്റ്റൻസ് വോൾടേജ് സ്രോതസ്സിനു കുറുകെ കണ്ടുപിടിക്കണം ഇതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം കാണുന്നത് ഇത് രണ്ടും പാരലൽ ആണ് പാരലൽ കൂട്ടുകെട്ട് ട്രാൻസ്ഫർനിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണക്കുകൂട്ടാം 1 കിലോ Ω ആണ് അപ്പോൾ ഈ 2 1 കിലോ Ω ഉണ്ട് പിന്നെ ഇത് സീരിസ് അപ്പോൾ സംയുക്തമായി 2 1 കിലോ Ω 3 9 കിലോ Ω അപ്പോൾ ഫലപ്രദമായി ഈ മുഴുവൻ സാധനവും ഒരൊറ്റ 6 കിലോ Ω റെസിസ്റ്റർ പോലെ കാണപ്പെടും ഇനി സീരിസിൽനമുക്ക് 6 കിലോ Ω ഉണ്ട് കൂടാതെ 4 കിലോ Ω പാരലൽ ആയി ഉണ്ട് കാരണം ഈ മുഴുവൻ കൂട്ടുകെട്ടും നമുക്ക് ഉണ്ട് പാരലൽ 4 കിലോ Ω ഉണ്ട് അപ്പോൾ 6 ഉം 4 ഉം പാരലൽ ആയി ഉണ്ട് ഇത് നിങ്ങൾക്ക് നൽകുന്നത് 2 4 കിലോ Ω 6 കിലോ Ω 4 കിലോ Ω ആയിട്ട് പാരലൽ അതിനാൽ ഇപ്പോൾ നമുക്ക് പ്രാവർത്തികമായി കിട്ടുന്നത് ഈ ചിത്രത്തിലെ പോലെ 3 പോയിന്റ് 6 കിലോ Ω 2 4 കിലോ Ω കൂടാതെ 3 6 കിലോ Ω തൊട്ട് 2 4 കിലോ Ω അപ്പോൾ ഈ 3 6 തൊട്ട് 2 4 കിലോ Ω ഒരു കറണ്ട് 1 5 മില്ലി അമ്പ്സ് ഇത് പോലെ ഒഴുകും I1 ന്റെ ദിശ അതുതന്നെയാണ് അപ്പോൾ I1 1 5 മില്ലി അമ്പ്സ് അതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത് പാലിക്കുക നിങ്ങളോട് ചോദിക്കുന്നത് കറണ്ടിന്റെ മൂല്യം കൂടതെ മില്ലി A അതായത് 1 5 ആണ് രണ്ടാമത്തെ ചോദ്യം വീണ്ടും കുറെ റെസിസ്റ്ററുകളുടെ കൂട്ടായ്മ കൂടാതെ കൺട്രോൾ സ്രോതസ്സ് I1 കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ പരിഹരിക്കേണ്ടത് എന്താണ് ഈ കൺട്രോൾ സ്രോതസ്സ് ചെയ്യുന്നത് V x ആണ് 3 കിലോ Ω റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ് ഇനി ഈ 2 ന്റെയും 3 കിലോ Ω ന്റെയും കൂട്ടുകെട്ട് സീരിസ്സിൽ എന്നിട്ട് ഇത് മൊത്തം 10 വോൾട്ടിന് കുറുകെ അപ്പോൾ വോൾടേജ് ഡിവൈഡഡ് തിയറത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം V x 3 കിലോ Ω ബൈ 3 കിലോ Ω 2 കിലോ Ω പോയിന്റ് 10 വോൾട്ട് അതായത് 6 വോൾട്ട് അപ്പോൾ V x ആണ് 6 വോൾട്ട് അതായത് 5 V x 30 വോൾട്ട് ആണ് ഇപ്പോൾ I1 എത്രയാണ് I1 ഈ കറണ്ടിന്റെയും ഞാൻ അതിനെ IA എന്നും ib എന്നും വിളിക്കട്ടെ അതിനാൽ I1 IAIB IA വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ് അതായത് ഈ സീരിസ് കൂട്ടുകെട്ടിൽ ഉള്ള കറണ്ട് അതായതു 10 വോൾട്ട് സീരിസ് കൂട്ടുകെട്ട് റെസിസ്റ്റൻസ് 5 കിലോ Ωs അതായതു 2 മില്ലി അമ്പ്സ് നമുക്ക് IB കണ്ടുപിടിക്കണം നിങ്ങൾക്ക് നിരീക്ഷികാം ഈ 5 കിലോ Ωs നമുക്ക് കിർച്ചോഫ് വോൾടേജ് ലോ ഇതിനു ചുറ്റും ഉപയോഗിക്കാം ഇത് അടങ്ങിയിരിക്കുന്നത് 10 വോൾട്ട് സ്രോതസ്സ് വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സ് കൂടാതെ 5 കിലോ Ω നിങ്ങൾ കാണും 5 കിലോ റെസിസ്റ്ററിനു കുറുകെ ഉള്ള ഈ ദിശയിലുള്ള വോൾടേജ് 20 വോൾട്ട് എന്ന് ഇത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കണം അപ്പോൾ IB നിങ്ങൾ കണ്ടു അത് 20 വോൾട്ട് 5 കിലോ ടു 4 മില്ലി A കൂടാതെ I A ന്റെയും I B യുടെയും മൊത്തമാണ് I 1 അപ്പോൾ 2 മില്ലി A അതായത് ഉത്തരം 2 ആണ് തന്നിരിക്കുന്നത് ഈ കേസിൽ ഇത് അതുപോലെ തന്നെ ഉള്ള ചോദ്യം ആണ് പക്ഷെ വേറെ തരത്തിലുള്ള സ്രോതസ്സുകൾ വോൾടേജ് സ്രോതസ്സിനു പകരം നമ്മൾ കറണ്ട് സ്രോതസ്സ് പ്രയോഗിക്കുന്നു നിങ്ങളോടു ചോദിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കുവാനാണ് കൂടാതെ വോൾടേജ് V1 അപ്പോൾ വീണ്ടും നിങ്ങൾ കണ്ടുപിടിക്കണം ബാക്കി സർക്യൂട്ട് എങ്ങനെ വരും എന്ന് എന്താണ് അത് കൊണ്ട് അർത്ഥമാക്കുന്നത് ബാക്കി സർക്യൂട്ട് ഒരൊറ്റ റെസിസ്റ്റൻസ് എന്ന പോലെ കാണും അപ്പോൾ അതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര കറണ്ട് അവിടെ ഒഴുകുന്നു എത്ര ഇവിടെ വോൾടേജ് എത്ര എന്നിങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ സ്രോതസ്സ് ഉണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ രണ്ടു ടെർമിനലിന് കുറുകെ ഉള്ള വോൾടേജ് Vx ആണ് നമുക്ക് V1 ഉണ്ട് പക്ഷെ എന്ത് തന്നെ വന്നാലും നമുക്ക് എത്ര V1 ആണ് ഇവിടെ ഉള്ളത് എന്ന് അതൊരു പരിവർത്തിതവസ്തു ആണ് ഇനി ഈ രണ്ടു ടെർമിനലുകൾ മുറിച്ചു കടന്നാൽ നമുക്ക് V1 ഉണ്ട് V x വോൾടേജ് ഡിവൈഡഡ് തിയറം വെച്ചിട്ട് v1 കണ്ടുപിടിക്കുക അപ്പോൾ V x V1 തവണ 2 കിലോ ഓം ബൈ 2 കിലോ ഓം 1 കിലോ ഓം ഓർക്കുക ഈ സീരീസ് കൂട്ടുകെട്ടിനു കുറുകെ V1 വരും v x 2 കിലോ ഓമിന് കുറുകെയും അപ്പോൾ അടിസ്ഥാനപരമായി V1 തവണ 2 ബൈ 3 അപ്പോൾ ഈ കൺട്രോൾ സ്രോതസ്സിൽ ഉള്ള കറണ്ട് 0 75 മില്ലിസീമെൻ തവണ vx അതായത് 0 75 മില്ലിസീമെൻ തവണ അത്രയും അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് ഇത്രയും കറണ്ട് കിട്ടും b മില്ലിസീമെൻ തവണ 1 കറണ്ട് വേറെ ശിഖരത്തിൽ V1 ആണ് ഈ സീരീസ് കൂട്ടുകെട്ടിന് കുറുകെ അപ്പോൾ അടിസ്ഥാനപരമായി ആ ശിഖരത്തിലെ കറണ്ട് V1 3 കിലോ ഓം നമ്മൾ ഇപ്പോൾ ഇവിടെ കിർച്ചോഫ് കറണ്ട് ലോ എഴുതണം ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നത് 5 മില്ലിയാമ്പ് കറണ്ട് s പകുതി മില്ലിസീമെൻ 1V1 3 കിലോ ഓം ഓക്കേ അപ്പോൾ ഇത് മാത്രം ആണ് ഏർത് ചെയ്യാൻ ഉള്ളത് ഇതിൽ നിന്ന് V1 കണ്ടുപിടിക്കാം 6 വോൾട്ട് ഇവിടെ നിന്ന് V1 പരിഹരിക്കുക ഉത്തരം 6 വോൾട്ട് ആയിരിക്കും നാലാമത്തെ ചോദ്യം നമുക്ക് ഒരു കൺട്രോൾ സ്രോതസ്സേ ഉള്ളു നിശ്ചിതം ആയിട്ടുള്ള വോൾടേജ് നാല് വോൾട്ട് ഈ കൺട്രോൾ സ്രോതസ്സിനു കുറുകെ കൊടുത്തിട്ടുണ്ട് I1 വീണ്ടും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് കറണ്ട് സ്രോതസ്സിനു വേണ്ടിയിട്ടുള്ള എല്ലാ സമവാക്യവും എഴുതുക ചിലതു അജ്ഞാതം ആയിരിക്കും ചിലതു നിങ്ങൾക്ക് അറിയാവുന്ന സംഗതികലെ ആശ്രയിച്ചു ആയിരിക്കും ഈ കേസിൽ ഈ വോൾടേജ് നിയന്ത്രിത കറണ്ട് സ്രോതസ്സ് 1 മില്ലിസിമെൻ V x അവിടെ V x 4 വോൾട്ട് സ്രോതസ്സിനു കുറുകെ നേരിട്ട് ആണ് അപ്പോൾ ലളിതമായി V x ഫോർ വോൾട്ട് ആണ് അപ്പോൾ ഈ കറണ്ട് അതായത് 1 മില്ലിസിമെൻ 4 വോൾട്ട് ഫോർ മില്ലിAs ആണ് അപ്പോൾ ഈ iy ഫോർ മില്ലിA കൂടാതെ ഈ രണ്ടാമത്തെ കൺട്രോൾ സ്രോതസ്സ് കറണ്ട് നിയന്ത്രിതമായ കൺട്രോൾ സ്രോതസ്സ് ആണ് 3 തവണ Iy Iy ഫോർ മില്ലിA 12 മില്ലിA ഈ I1 കിർച്ചോഫ് കറണ്ട് ലോ പ്രയോഗിച്ചു കണ്ടുപിടിച്ചു ഇത് 12 മില്ലിയാമ്പ് ഫോർ മില്ലിയാമ്പ് അപ്പോൾ ട്രാൻസ്ഫർ പതിനാറു മില്ലിയാമ്പ് ഇനി അടുത്ത ചോദ്യം എല്ലാം ഒന്ന് തന്നെ പക്ഷെ പല കൂട്ടുകെട്ടുകൾ റെസിസ്റ്ററുകളുടെയും കൺട്രോൾ സ്രോതസ്സുകൾ പിന്നെ സ്വതന്ത്ര സ്രോതസ്സുകൾ ഈ കേസിൽ 12 വോൾട്ട് ഈ 5 കിലോ ഓം റെസിസ്റ്ററുകളുടെയും വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സിന്റെയും കൂട്ടുകെട്ടിൽ സീരിസിൽ കുറുകെ ഘടിപ്പിച്ചിരിക്കുന്നു I1 കണ്ടുപിടിക്കുവാൻ ചോദിച്ചിരിക്കുന്നു നിങ്ങൾ എല്ലാ സമവാക്യവും എഴുതുന്നു അവസാനം നിങ്ങൾക്ക് അജ്ഞാതമായ I1 കണ്ടുപിടിക്കുവാൻ സാധിക്കും അപ്പോൾ I1 ആണ് ഇവിടെ ഒഴുകുന്നതെങ്കിൽ അതാണ് ഇവിടെ തന്നിരിക്കുന്നത് I1 ആണ് ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്നത് നമുക്ക് അറിയാം Vx I1 തവണ 5 കിലോ ഓം അജ്ഞാതമാണെന്ന് ഇത് പിന്നീട് കണക്കാക്കാം പക്ഷെ v x I1 തവണ 5 കിലോ ഓം ഓംസ് ലോ വഴി കൂടാതെ വോൾടേജ് നിയന്ത്രിത വോൾടേജ് സ്രോതസിന്റെ കുറുകെ ഉള്ള വോൾടേജ് 2 തവണ Vx ആണ് Vx അതായതു 10 കിലോ ഓം തവണ I1 ഇനി ഈ മുഴുവൻ ലൂപ്പിലും KVL പ്രയോഗിച്ചാൽ നമുക്ക് 12 വോൾട്ട് റെസിസ്റ്ററിനു കുറുകെയും വോൾടേജ് നിയന്ത്രിത വോൾടേജ് സ്രോതസിനു കുറുകെയും കിട്ടും അപ്പോൾ 12 വോൾട്ട് s 5 കിലോ Ωs I110 കിലോ Ωs I1 ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ I1 കണ്ടുപിടിക്കാൻ പറ്റും പോയിന്റ് 8 മിലിA ഈ കേസിൽ നിങ്ങളോടു ചോദിച്ചിരിക്കുന്നത് ടെർമിനൽ A യുടെയും B യുടെയും ഇടയിൽ ഉള്ള തുല്യത റെസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഒരു പെട്ടി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് A യും B യും ഉണ്ട് തുല്യത റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വോൾടേജ് പ്രയോഗിക്കുക എന്നിട്ട് ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കുക ഈ ദിശ ശെരിക്ക് നോക്കുക നിങ്ങൾ ഈ പെട്ടിയിലെ തുല്യത റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ പെട്ടിയിലെ വോൾട്ടെജ്ജും കറണ്ടും തിരഞ്ഞെടുക്കണം പാസ്സിവും കൺവെർഷനും വഴി നമുക്ക് പറയാം ഇത് V I പാസ്സീവ് സൈൻ കൺവെർഷന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും തുല്യത റെസിസ്റ്റൻസ് V ബൈ I ആയിരിക്കും അതിനാലാണ് ഞാൻ V test തിരഞ്ഞെടുത്തതു കൂടാതെ I test ഈ പൊളാരിറ്റിയിലും മറ്റൊരു വിധത്തിൽ എനിക്ക് ഇത് ചെയ്യാം ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ ഉചിതം അതായത് ഒരു കറണ്ട് സ്രോതസ്സ് പ്രയോഗിക്കുക അല്ലെങ്കിൽ I test പ്രയോഗിക്കുക ഞാൻ സർക്യൂട്ടിൽ ക്രമേണ ഉണ്ടായ വോൾട്ടേജ്ജ് കണ്ടുപിടിക്കുന്നു ഈ കേസിൽ V test ഇൽ നിന്ന് I test കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ കേസിൽ V test ഇൽ നിന്ന് I test കണ്ടുപിടിക്കുവാനായി പതിവായ സർക്യൂട്ട് അനാലിസിസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഇവിടെ ഒരു V test പ്രയോഗിക്കാം ഇനി എനിക്ക് വേറെ കുറെ അജ്ഞാതമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാൻ ഉണ്ട് ഇതെല്ലം ആദ്യം കണ്ടുപിടിക്കണം എനിക്ക് ix കറണ്ട് 1 കിലോ Ω റെസിസ്റ്റൻസ് ആയി ഉണ്ട് V test നേരിട്ട് 1 കിലോ Ω നു കുറുകെ വരുന്നു കറണ്ട് ഈ വഴിക്ക് 3 തവണ I x അപ്പോൾ ഇതിലെ കറണ്ട് 3 തവണ അതായത് 3 തവണ V test ബൈ 1 കിലോ Ω ഞാൻ ഇത് ചൂണ്ടി കാണിക്കട്ടെ ഇത് ഈ കറണ്ട് ഇത് ഈ കറണ്ട് അവസാനമായി നമുക്ക് വോൾടേജ് നിയന്ത്രിത കറണ്ട് സ്രോതസ്സ് ഉണ്ട് മുകളിലോട്ട് സൂചന നൽകുന്നത് ദയവായി ദിശ മനസ്സിലാക്കുക അത് 2 മില്ലി സിമെൻ തവണ V x ആണ് V x വേറൊന്നുമല്ല V test ആണ് കാരണം V x നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ രണ്ടു ടെർമിനലിന് കുറുകെ ഇത് യഥാർത്ഥത്തിൽ V test അപ്പോൾ നമുക്ക് കറണ്ട് ഈ ദിശയിൽ ഉണ്ട് അതായത് 2 മില്ലി സിമെൻ തവണ V x ന്റെ ദിശയിൽ എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ടെസ്റ്റ് വോൾടേജ് പ്രയോഗിച്ചു ഈ സർക്യൂട്ടിലേക്ക് പ്രവഹിക്കുന്ന കറണ്ട് അപ്പോൾ ഈ I test ഈ മൂന്ന് കറണ്ടിന്റെയും മൊത്തം തുക ഓർക്കുക ഈ രണ്ടു കറണ്ട് താഴേക്ക് ആണ് പ്രവഹിക്കുന്നത് ഇനി ഈ ഒരെണ്ണം മുകളിലോട്ടും അപ്പോൾ I test V test ബൈ 1 കിലോ Ω3 V test ബൈ 1 കിലോ Ω 2 മില്ലിസിമെൻസ് തവണ v x ഇനി ഇത് മുഴുവനും നിങ്ങൾ എഴുതിയാൽ ഇത് നിങ്ങൾ കണ്ടുപിടിക്കും ഈ മില്ലി സിമെൻ തവണ V test ആണെന്ന് സാധാരണ 3 മില്ലി സിമെൻ തവണ V test അപ്പോൾ നമുക്ക് ഉണ്ട് 2 മില്ലി സിമെൻ തവണ V test V test കാരണം V x V test അതിനാൽ V test ബൈ I test 1 ബൈ 2 മില്ലിസിമെൻസ് ആകും ഇത് 500Ω ആണ് കിലോ Ω ഇൽ ഉള്ള റെസിസ്റ്റൻസ് ആണ് നിങ്ങളോടു കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അത് 0 5 കിലോΩ ആണ് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് തുല്യത ഇണ്ടക്ടൻസ് ആണ് അപ്പോൾ നിങ്ങൾക്കൊരു പെട്ടി ഉണ്ടെങ്കിൽ അതിന്റെ അകത്തു എന്തുണ്ടെന്നു നിങ്ങൾ ബോധവാന്മാരാകണ്ട പുറമെ നിന്ന് അളന്നിട്ടു നിങ്ങൾ കണ്ടുപിടിക്കുക നമുക്ക് പറയാം ഇത് a യും b യും ആണെന്ന് ഒരു നിശ്ചിത V test പ്രയോഗിക്കുക എന്നിട്ട് കറണ്ട് I test കണ്ടുപിടിക്കുക അപ്പോൾ I test V test ആനുപാതികമായി വന്നാൽ കപ്പാസിറ്ററിന്റെ അകത്തു എന്ത് തന്നെ ആയാലും അതും പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റന്റും ചേർന്ന് കപ്പാസിറ്റന്സ് തരും അതുപോലെ തന്നെ I test V test ന്റെ ഇന്റഗ്രൽ ആണെങ്കിൽ അകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഇണ്ടക്ടർ ആണ് എന്നിട്ട് പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റന്റ് തരുന്നത് ഇണ്ടക്ടൻസിന്റെ റേസിപ്രോക്കൽ ആണ് അപ്പോൾ വീണ്ടും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് വോൾടേജ് V test ന്റെയും ഫലത്തിൽ ഉണ്ടാകുന്ന കറണ്ട് I test ന്റെയും ബന്ധം കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ ഞാൻ ഒരു പരിവർത്തിതവസ്തു നിർവചിക്കട്ടെ I1 ഇനി ഇത് എന്താണ് V x I1 ഇണ്ടക്ടറിലൂടെ ഒഴുകുന്നു ഇണ്ടക്ടറിന് കുറുകെ V x പൊളാരിറ്റി ഒന്നുമില്ല എനിക്ക് എഴുതാം V x I1 ന്റെ 1 തവണ ഡെറിവേറ്റീവ് ആണെന്ന് എനിക്ക് ഉണ്ട് വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സ് 3 V x 3 V x 3 തവണ L തവണ dI 1 ബൈ dt ഫോർ 1 ഇത് 1 മില്ലി ഹെൻറി ഇണ്ടക്ടർസ് അപ്പോൾ അത് Vy ഈ വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സിനു കുറുകെ വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സ് ഇവിടെ ഉണ്ട് ഇതിൽ 4 തവണ vy വോൾടേജ് ഉണ്ട് ഇത് അടിസ്ഥാനമായിട്ടുള്ള വോൾടേജ് ആണ് 12 തവണ L തവണ dI 1 ബൈ dt ഞാൻ വേറെ പരിവർത്തിതവസ്തു നിർവചിക്കേണ്ട കാര്യം ഇല്ല Iz ഇവിടെ നേരത്തെ തന്നെ നിർവചിച്ചിട്ടുണ്ട് Iz കൃത്യമായി I1 നോട് തുല്യമാണ് ഇനി എനിക്ക് 3 തവണ Iz അവിടെ ഉണ്ട് ഇത് അടിസ്ഥാനമായി 3 തവണ I1 ആണ് ഇനി KVL ഈ മുഴുവൻ ലൂപ്പിലും പ്രയോഗിച്ചാൽ ഞാൻ കാണുന്നത് V test ഇണ്ടക്ടറിനു കുറുകെ ഹോൾഡർ വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സിനു കുറുകെ ഉള്ള വോൾടേജ് വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സിനു കുറുകെ ഉള്ള വോൾടേജ് V test അതിൽ ചിലത് ആണ് അതായതു 16 ഗുണനം l ഗുണനം dI 1 ബൈ dt ഇവിടെ L എന്ന് വെച്ചാൽ 1 മില്ലി ഹെൻറി ഇണ്ടക്ടറുകൾ I test എന്താണ് I test ഇതാണ് അവിടെയുള്ള I 3 I അപ്പോൾ അത് 4 ഗുണനം I1 I1 ഇടയിലുള്ള പരിവർത്തിതവസ്തു ഇത് ഒഴിവാക്കിയാൽ എനിക്ക് കാണാം V test 4 ഗുണനം 1 ഗുണനം dI ടെസ്റ്റ് ബൈ dt ഇവിടെ ഞാൻ വിശദീകരിച്ചതുപോലെ എനിക്ക് ഈ പെട്ടിയിൽ കുറച്ച കറണ്ട് ഉണ്ട് ഇത് ഈ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ചു വോൾട്ടെജ്ജും അതിനു കുറുകെ ഉണ്ട് വോൾട്ടെജ്ജും കറണ്ടും തമ്മിലുള്ള ബന്ധം ഇതാണ് വോൾടേജ് കറണ്ടിന്റെ ടൈം ഡെറിവേറ്റീവിനോട് പ്രൊപോർഷനൽ ആണ് കൂടാതെ പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഫോർ l ആണ് അതായത് l എന്ന് പറഞ്ഞാൽ 1 മില്ലിഹെൻറി ആണ് ഇതാണ് ഈ മുഴുവൻ പെട്ടിയുടെയും ഇൻഡക്ഷൻ ഇത് നാല് മില്ലിഹെൻറി ആണ് നിങ്ങളോടു മില്ലിഹെൻറി യിൽ ഉള്ള ഇണ്ടക്ടൻസ് ആണ് ചോദിച്ചേക്കുന്നതു അപ്പോൾ ഉത്തരം നാല് അവസാനം ഒടുവിലത്തെ ചോദ്യത്തിലേക്ക് വരിക നിങ്ങളോടു കറണ്ട് I1 കണ്ടുപിടിക്കുവാൻ ആണ് ചോദിച്ചിരിക്കുന്നത് നാല് മില്ലി സെക്കന്റ് ഇപ്പോൾ നമുക്ക് നേരേയുള്ള ഭാഗങ്ങളാണ് ഉള്ളത് ഇതിനോടകം നിങ്ങൾക്ക് ഇതൊക്കെ പതിവുള്ള കാര്യങ്ങളാണ് അപ്പോൾ തന്നിരിക്കുന്ന രീതി V വോൾടേജ് സ്രോതസ്സ് അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കാണുക ഈ V വോൾടേജ് സ്രോതസ്സ് കപ്പാസിറ്ററിന് കുറുകെ നേരെ കാണപ്പെടും ഇത് W ഇവിടെ കാണുന്നതെല്ലാം V ആണ് ഇനി കപ്പാസിറ്റർ കറണ്ട് കണ്ടുപിടിക്കണം കൂടാതെ Ix കാരണം വേറെ കൺട്രോൾ സ്രോതസ്സിനു വേണ്ടത് അപ്പോൾ ix എന്താണ് ix ന്റെ മൂല്യം അടിസ്ഥാനപരമായി കപ്പാസിറ്റൻസ് 1 മൈക്രോ ഫാറഡ് തവണ ടൈം ഡെറിവേറ്റീവ് ഞാൻ എന്നിട്ട് എടുക്കട്ടേ ഫോർ മില്ലി സെക്കന്റ് അപ്പോൾ ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട ടൈം ഡെറിവേറ്റീവ് അപ്പോൾ ഞാൻ ഈ വരയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കും ഇത് 3 വോൾട്ട് പ്രകാരം താഴെ വീഴുന്നു 3 വോൾട്ട് തൊട്ടു പൂജ്യം വരെ 3 മില്ലി സെക്കന്റ് പരിവൃത്തിയിൽ അതിനാൽ ഇതിന്റെ സ്ലോപ്പ് 3 വോൾട്ട് ബൈ 3 മില്ലി സെക്കന്റ് കാരണം വോൾടേജ് താഴേക്ക് പോവുകയാണ് അതിനാൽ കപ്പാസിറ്ററിലൂടെ പോകുന്ന കറണ്ട് വോൾട്ടാജിന്റെ ഡെറിവേറ്റീവിന്റെ c തവണ ആണ് ഈ ദിശയിൽ ഉള്ളത് അത് 1 മൈക്രോ ഫാരഡ് തവണ 3 വോൾട്ട് ബൈ 3 മില്ലി സെക്കന്റ് അതായത് 1 മില്ലിA നു തുല്ല്യം അപ്പോൾ 5 x മില്ലിA അപ്പോൾ 5 x അടിസ്ഥാനപരമായി 5 മില്ലിA ഇത് 1 മില്ലിA ഇത് മില്ലിA ഞാൻ ഇനി കറണ്ട് I ഈ ദിശയിൽ എടുത്താൽ ഞാൻ ആ ദിശയിൽ എടുത്താൽ I1 ലളിതമായി 3 കറണ്ട് നിശ്ചിതം ആയിട്ട് 2 മില്ലിAകറണ്ട് സ്രോതസ്സിൽ മുകളിലോട്ട് ഒഴുകുന്നു അപ്പോൾ ഈ ദിശയിൽ 2 മില്ലിA ആണ് അപ്പോൾ എനിക്ക് ഈ 3 കറണ്ടും കൂടി കൂട്ടണം അപ്പോൾ മൊത്തമായി കറണ്ട് I 1 5 1 2 അതായതു 8 മില്ലിA അപ്പോൾ ഉത്തരം 8 ആണ് വീണ്ടും നിങ്ങളിൽ ചിലർ തെറ്റിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്തിൽ അങ്ങനെ അപ്പോൾ വീണ്ടും തിരിച്ചു പോവുക വീണ്ടും പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ തന്നെ തുടക്കം മുതൽ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഭാവിയിൽ പരിഹരിക്കുവാൻ സാധിക്കും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പരിഹരിച്ചത് കണ്ടു കൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തരാകാൻ പാടില്ല ഇനി ഇത് നോക്കാതെ തന്നെ ചെയാൻ ശ്രമിക്കു